വീണ്ടും സ്വാഗതം മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത വികാരങ്ങൾ ചിത്രീകരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കൂടി നോക്കാം അത് ഇമോഷനൽ ഇൻറ്റെലജൻസ് ന്റെ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ആശയം നൽകും ഈ ചിത്രങ്ങളിൽ കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് സഹപാഠികൾ അംഗീകരിക്കാത്ത കുട്ടികൾ പഠനം ഉപേക്ഷിക്കാൻ എട്ട് മടങ്ങ് വരെ സാധ്യതയുണ്ട് മൂന്ന് കുട്ടികൾ ഒരുമിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ ഒരുമിച്ച് കളിക്കുമ്പോൾ അവരിൽ ഒരു ആൺകുട്ടി ഒറ്റപ്പെടൽ അനുഭവിച്ചാൽ സംഭവിക്കുന്ന അവസ്ഥ ഇതാണ് ഇത് ഇന്റെർപഴ്സണൽ സ്കിൽസ് ന്റെ അഭാവത്തിന്റെ ലക്ഷണമാണ് അതിനാൽ ഈ ഇന്റെർപഴ്സണൽ സ്കിൽസ് വിദ്യാർത്ഥികൾക്കിടയിൽ കുറഞ്ഞത് സ്കൂൾ തലത്തിലോ കുടുംബ തലത്തിലോ എങ്കിലും വളർത്തിയെടുക്കേണ്ടതുണ്ട് ഈ ചിത്രം ഈ വ്യക്തിയെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് അദ്ദേഹം വളരെ വാചാലനും തമാശക്കാരനും ആത്മവിശ്വാസമുള്ളവനുമാണ് ഫലപ്രദമായി ആൾക്കാരെ കബളിപ്പിക്കുന്നതിന് ആവശ്യമായ കഴിവുകളാണിവയെന്ന് പറയപ്പെടുന്നു കോർപ്പറേറ്റ് മേഖലകളിൽ ഇപ്പോൾ ഒരു പ്രസിദ്ധമായ മുദ്രാവാക്യം ഉണ്ട് കോർപ്പറേറ്റ് ലോകത്ത് പേഴ്സണൽ എക്സിക്യൂട്ടീവുകൾ പറയുന്നത് ഐക്യു നിങ്ങളെ ഉയർന്നതാക്കുന്നു എന്നാൽ ഇക്യു നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം നൽകുന്നു അതിനാൽ ജീവിതത്തിലെ വിജയത്തിന്റെ പടികൾ കയറാൻ ഇക്യു വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഇമോഷനൽ ഇൻറ്റെലജൻസിന്റെ സാന്നിധ്യം കാണിക്കുന്ന രസകരമായ ചില സാഹചര്യങ്ങളുണ്ട് ഈ ചിത്രം എന്താണ് കാണിക്കുന്നത് ഇത് ഒരു അമ്മയുടെയും ഒരു ചെറിയ കുട്ടിയുടെയും ചിത്രമാണ് അമ്മ കുട്ടിയ്ക്ക് നേരെ കൈകൾ നീട്ടുമ്പോൾ കുട്ടിയും പുഞ്ചിരി നൽകിക്കൊണ്ട് അതേ രീതിയിൽ പ്രതികരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് എന്താണ് പ്രതിഫലിപ്പിക്കുന്നത് ഈ പ്രതികരണത്തിൽ ഇക്യു വിന്റെ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളിൽ ഐക്യു പോലെ എംപതിയും ഉണ്ട് മനശാസ്ത്രത്തിലെ പ്രസിദ്ധമായ ഒരു വാക്യം ഞാൻ ഓർക്കുന്നു പ്രശസ്ത മനശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് ബിനെറ്റ് പറഞ്ഞു മനസ്സ് ഒരു ശൂന്യമായ സ്ലേറ്റല്ല ഇത് ബെനെറ്റ് പറഞ്ഞതാണോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഒരു മനശാസ്ത്രജ്ഞൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം എഴുതാൻ കഴിയുന്ന ഒരു ശൂന്യമായ സ്ലേറ്റല്ല മനസ്സ് തന്റെ ജനനം മുതൽ ഇക്യുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനും ശൂന്യനല്ല എന്ന ശ്രദ്ധേയമായ ആശയം ഇവിടെ പ്രസക്തമാണ് എല്ലാവരും ജനിക്കുമ്പോൾ ഇക്യു വോട് കൂടി ജനിക്കുന്നു അത് സ്വതസിദ്ധമായ ഇക്യു ആണ് എന്നാൽ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഇതിനകം തന്നെ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ചില സോഫ്റ്റ്വെയറുകൾ ഉണ്ട് അത് നമ്മുടെ മാനുഷിക വികാരങ്ങളെ അനുദിനം നിയന്ത്രിക്കുന്നു ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ബോട്ട് റേസ് എന്നാണ് ഒരു നേതാവ് മുന്നിൽ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതായി ശ്രദ്ധിക്കുക ഇത് ഒരു ടീം വർക്ക് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതുപോലെ ഇത് നേതൃപാടവത്തിന്റെ ഒരു ഉദാഹരണമാണെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയും വീണ്ടും ഒരു വൺമാൻ കമാൻഡറുടെ ഉദാഹരണമാണെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഇത് എല്ലാവരേയും ആശ്രയിച്ചിരിക്കുന്നുവെന്നും ചിലർ പറയുന്നു മുന്നിൽ ഇരിക്കുന്ന ഒരാളുടെ കമാൻഡിനെയും നിയന്ത്രണത്തെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറയും ആരോക്കെ എന്തിനൊക്കെ യോജിച്ചതെന്നും എത്ര പേർ ഇടത് വശത്ത് നിൽക്കുന്നു എത്ര പേർ വലതുവശത്ത് ഉണ്ടാകും എന്നുമൊക്കെ ആ വ്യക്തിക്ക് അറിയാമെങ്കിൽ അതിൽ ആശ്രയിച്ചിരിക്കുന്നു ഇതിന്റെ വിജയം ഇങ്ങനെ ബാലൻസ് നിലനിർത്തുന്നവർ മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുന്ന കുഴപ്പങ്ങൾക്കിടയിലും ഉന്മേഷത്തോടെ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് കാണിക്കുന്നു ഐക്യു വിന്റെ പ്രാധാന്യം കാണിക്കുന്ന മികച്ച പ്രകടനം ഇവർ കാണിക്കുന്നു ഉയർന്ന ഐ ക്യു ഉള്ളവരുടെ ജീവിതം കൃത്യമായ ആശയവിനിമയം പ്രതിബദ്ധത കൂട്ടായ പരിശ്രമങ്ങൾക്ക് ആവശ്യമായ ബാലൻസ് എന്നീ ഗുണങ്ങളാൽ സന്തുലിതമാണ് പലപ്പോഴും ആളുകൾ ഇത് നെഗറ്റീവ് ആയി കാണുന്നു ചില ആളുകൾ ഇത് ഒരു തരം വഞ്ചനയാണെന്ന് ഉടനടി പറയുന്നു പക്ഷേ അത് അങ്ങനെയല്ല ഒരു കൂട്ടം സുഹൃത്തുക്കൾ തെരുവിൽ ഒരുമിച്ച് നടക്കുന്നു അല്ലേ എന്തുകൊണ്ടാണ് ഇത് അവരുടെ പരസ്പര ബന്ധത്തിന്റെ പ്രതിഫലനമാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇത് നല്ല സൌഹൃദത്തിന്റെ പ്രതിഫലനമാകാൻ കഴിയാത്തത് നമ്മുടെ മനസ്സിലും സമൂഹത്തിലും ഇപ്പോഴും നിലനിൽക്കുന്ന സാമൂഹിക മുൻവിധികൾ നമ്മുടെ സാമൂഹിക ധാരണയെയും വൈകാരിക ധാരണയെയും ലേബൽ ചെയ്യുന്നു ഇത് ചിലപ്പോൾ പരസ്പരവിശ്വാസത്തിന്റെ ഉദാഹരണം ആകാം ഹം സാത്ത് സാത്ത് ഹേ ശരിയല്ലേ മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ നിഷേധാത്മക ധാരണയെ ഇത് തകർക്കുന്നു എന്നാൽ ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇത് വളരെ അത്ഭുതകരമാണ് മനുഷ്യ വികാരങ്ങളെ ചിത്രീകരിക്കുന്ന ചില ചിത്രങ്ങളാണിവ ചിലത് വളരെ അക്രമാസക്തമാണ് ചിലത് വളരെ നിശബ്ദമാണ് എന്നാൽ ചിലത് വളരെ നിശബ്ദമായി മനസ്സിനെ കൊല്ലുന്നു ഉത്കണ്ഠ അപകടത്തിനുള്ള ഒരു റിഹേഴ്സലാണ് ഒരു ചെറിയ ഉത്കണ്ഠ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു വളരെയധികം ഉത്കണ്ഠ അതിനെ തളർത്തുന്നു അത് അവന്റെ മനസ്സിൽ തീ സൃഷ്ടിക്കുന്നു കുറച്ച് സമയത്തേക്ക് ഇത് തുടരുകയാണെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള വൈജ്ഞാനിക പക്ഷാഘാതത്തിന് ഇരയാകും ആ വ്യക്തിക്ക് ഹൃദയസ്തംഭനം അനുഭവപ്പെടാം ഹൃദയാഘാതം അനുഭവപ്പെടാം അതിനാൽ ഒരു വ്യക്തി തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് ഒരു ഉത്കണ്ഠയോ സമ്മർദ്ദമോ പിരിമുറുക്കമോ ആകട്ടെ അത് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈനംദിന കാര്യങ്ങളാണിത് അതിരാവിലെ രണ്ട് ദമ്പതികൾ ചായ മേശയിൽ ഒരു കപ്പ് ചായ കുടിക്കുന്നു ഭർത്താവ് പത്രം വായിക്കുന്നു ഭാര്യ എന്തൊക്കെയോ പറയുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ആര് ആരെയാണ് നിയന്ത്രിക്കുന്നത് ഭാര്യ ഭർത്താവിനേക്കാൾ ആവേശത്തിലാണെന്ന് തോന്നുന്നു ഒരാൾ വളരെയധികം സംസാരിക്കുന്നു മറ്റെയാൾ വളരെ കുറവാണ് ഒരുപക്ഷേ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം പക്ഷേ യാതൊരു ശ്രദ്ധയും കരുതലും ഇല്ലാതെ അതിനാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ശ്രദ്ധ കരുതൽ സഹാനുഭൂതി സഹതാപം എന്നിവ നമ്മുടെ സ്വകാര്യവും തൊഴിൽപരവുമായ ബന്ധത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഈ വ്യക്തി കേൾക്കുന്നില്ലെങ്കിലോ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ കൂടുതൽ അക്രമമുണ്ടാകാം കൂടുതൽ ആക്രമണമുണ്ടാകാം അല്ലേ ഇവിടെ പത്രം ബാലൻസ് നിലനിർത്തുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ പത്രം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കാരണം ഇത് ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്നു സ്ത്രീയുടെ മുഖഭാവം അവൾ എന്താണ് പ്രൊജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവനോട് പറയാൻ ശ്രമിക്കുന്നത് അതിനെ തടസ്സപ്പെടുത്തുന്നു അതിനാൽ പത്രം നീക്കം ചെയ്യുന്ന നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ആക്രമണവും ഉണ്ടാകാം പത്രം മാറ്റി വെച്ച് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലത് പക്ഷേ ഭർത്താവ് പറയുന്നു എന്റെ ദൈവമേ ഇത് എല്ലാ ദിവസവും രാവിലെ സംഭവിക്കുന്നു ഇത് എനിക്ക് ശീലമായിരിക്കുന്നു പക്ഷേ അങ്ങനെ പറയുന്നതിലൂടെ ആ വ്യക്തി തനിക്കു കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ ഇത് ചെയ്യുന്നതിനോ ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനോ ഉള്ള മികച്ച മാർഗം എന്തായിരിക്കും ഇത് തുടരുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇമോഷണൽ ഡെഫിഷ്യൻസി വിവാഹങ്ങളിൽ പകുതിയിലധികം വിവാഹമോചനത്തിൽ അവസാനിക്കുന്നതിനുള്ള കാരണമായിരിക്കാം ഇപ്പോൾ ആധുനിക ജീവിതത്തിലെ ഒരു ദിവസം ദമ്പതികൾ ദിവസങ്ങളോ ആഴ്ചകളോ ആയി പോലും കണ്ടുമുട്ടാത്ത അർത്ഥത്തിൽ ഇത് കൂടുതൽ കൂടുതൽ മാറുകയാണ് ഭർത്താവ് ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നു ഭാര്യ മറ്റൊരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നു പരസ്പരം സംസാരിക്കാനുള്ള അവസരം പോലും അവർക്ക് ലഭിക്കുന്നില്ല ആരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് അതിനാൽ അവിടെയും കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം എന്റെ കാലിൽ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ഞാൻ ഒരു കാർ ഡ്രൈവറെ തിരയുകയായിരുന്നു വളരെയധികം പരിശ്രമത്തിലൂടെ ഞാൻ ഒരു ഡ്രൈവറെ കണ്ടെത്തി അയാൾ പറയുന്നു സർ ഞാൻ ഖരഘ്പൂരിലെ ഒരു യാത്രക്കാരനോടൊപ്പം രാത്രി ഷിഫ്റ്റ് ചെയ്യുന്നു പക്ഷെ എന്റെ കുട്ടികളുടെ മുഖം കാണാൻ എനിക്ക് സമയമില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ മകൾ എന്നെ അച്ഛന് പകരം അമ്മാവൻ എന്ന് വിളിക്കാൻ തുടങ്ങുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവൾക്ക് എന്നെ കാണാൻ എനിക്ക് സമയമില്ല ആധുനിക ജീവിതത്തിൽ സംഭവിക്കുന്നത് അതാണ് നമ്മുടെ സ്വന്തം ജോലികളിൽ നമ്മൾ വളരെ തിരക്കിലാണ് നമ്മൾ പരസ്പരം ശ്രദ്ധയോ കരുതലോ വാത്സല്യമോ നൽകുന്നില്ല അതാണ് നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ചില സാഹചര്യങ്ങളാണിവ ഇത് നമ്മുടെ വൈകാരിക ബന്ധങ്ങളുടെ അടിസ്ഥാനം എടുത്തുകാണിക്കുന്നു അത് ശരിയായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുകയും പൊതുവെ നിങ്ങളുടെ ജീവിതത്തെ സുഗമമാക്കുകയും ചെയ്യും കുറഞ്ഞ EI ഉള്ളവരുടെയും ഉയർന്ന EI ഉള്ളവരുടെയും സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് പരിശോധിക്കാനുള്ള സമയമാണിത് അതിനാൽ ആദ്യത്തേതിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഞാൻ വളരെ സെൻസിറ്റീവ് ആണ് ഞാൻ എല്ലാം വ്യക്തിപരമായി എടുക്കുന്നു ഇവരാണ് വൈകാരികരായ ആളുകൾ എന്ന് മുദ്രകുത്തപ്പെടുന്നവർ വൈകാരികമായി അവർക്ക് അവരുടെ വികാരങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഒരു വ്യക്തി വളരെ സെൻസിറ്റീവ് ആകുന്നത് ഈ ലോകത്ത് സംഭവിക്കുന്നതെന്തും അവർ സ്വയം ആരോപിക്കുന്നു എല്ലാം വ്യക്തിപരമായി എടുക്കുക "നിങ്ങളുടെ ദുഖത്തിന് ഞാൻ ഉത്തരവാദിയാണ് നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ ഉത്തരവാദിയാണ് ഇന്ന് എന്റെ കുട്ടികൾ എന്താണെന്നതിന് ഞാൻ ഉത്തരവാദിയാണ് എനിക്ക് അവരെ പരിപാലിക്കാൻ കഴിഞ്ഞില്ല" ഇല്ല അത് നിങ്ങളല്ല ഇതിൽ മറ്റ് പല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും ദുഖിതനാണ് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും അസന്തുഷ്ടനായ വ്യക്തി ഞാനാണ് തെരുവിൽ താമസിക്കുന്ന പ്ലാറ്റ്ഫോമിൽ താമസിക്കുന്ന തെരുവിൽ യാചിക്കുന്ന വസ്ത്രമില്ലാതെ കാട്ടിൽ താമസിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷണവും തുണിയും പാർപ്പിടവുമില്ലാത്ത ധാരാളം ഗോത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് കാടുകളിൽ ലഭ്യമായനിങ്ങൾക്കറിയാവുന്ന ചില ദൈവിക ദാനങ്ങളാൽ മാത്രമേ അവർ നിലനിൽക്കുകയുള്ളൂ അവയെ പ്രകൃതിയിലെ വാസസ്ഥലങ്ങൾ എന്ന് വിളിക്കുന്നു നമ്മൾ 21 ആം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാൽ ഞാൻ വളരെ സെൻസിറ്റീവാണ് എല്ലാം വ്യക്തിപരമായാണ് എടുക്കുക എന്ന് ഞാൻ പറയുന്ന നിമിഷം അതിനർത്ഥം നിങ്ങളുടെ സ്വന്തം ശക്തിയും ബലഹീനതയും വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഇത് താഴ്ന്ന തലത്തിലുള്ള ഇമോഷണൽ ഇന്റലിജൻസിന്റെ അടയാളമാണ് എന്തുകൊണ്ടാണ് എനിക്ക് ചില സമയങ്ങളിൽ അലോസരമുണ്ടാകുന്നത് എന്ന് എനിക്കറിയില്ല അലോസരം എന്താണ് നിങ്ങളെ അലോസരപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ വികാരങ്ങൾ വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയില്ലെന്നാണ് ഇതിനർത്ഥം യഥാർത്ഥ വികാരങ്ങൾ എന്താണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ സുഗമമാക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ അതും ഇമോഷണൽ ഇന്റലിജൻസിന്റെ താഴ്ന്ന നിലയുടെ അടയാളമാണ് നിങ്ങൾ പല തവണ ചോദിക്കുന്നു നിങ്ങൾക്കറിയാമോ എന്റെ മുമ്പിൽ വന്ന രണ്ട് കേസുകളുണ്ട് ഒരുപക്ഷേ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ആൺകുട്ടികളിൽ ഒരാൾ ആർക്കിടെക്ചർ നാലാം വർഷം ചെയ്യുകയായിരുന്നു വൈകാരിക അസ്വസ്ഥതകളോടെയാണ് അവൻ വന്നത് പെട്ടെന്ന് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതെന്ന് ഇല്ല സർ നിങ്ങൾ താരതമ്യേന ഒരു യുവ മനശാസ്ത്രജ്ഞനാണ് അതിനാൽ മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നതിനുപകരം നിങ്ങളോട് എന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാമെന്ന് ഞാൻ കരുതി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ട് മൂന്ന് സീനിയർ സൈക്കോളജിസ്റ്റുമാർ ലഭ്യമാണ് ആളുകളും മുതിർന്ന പ്രായമുള്ള വിദ്യാർത്ഥികളും പോലും അവരുടെ കംഫോര്ട് സോൺ എന്താണെന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നു കംഫർട്ട് സോൺ വ്യക്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന നിമിഷം എല്ലാ തടസ്സങ്ങളും നീക്കി അവന് എല്ലാം തുറന്ന മനസ്സോടെ പ്രകടിപ്പിക്കാൻ കഴിയും അവൻ പറഞ്ഞു "സർ കഴിഞ്ഞ രണ്ട് ദിവസമായി എന്റെ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല" എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് കാരണം ഇല്ല സർ ഞാൻ യഥാർത്ഥത്തിൽ എന്റെ ബാച്ചിലെ ഒരു പെൺകുട്ടിയുമായി ആഴത്തിലുള്ള പ്രണയത്തിലാണ് പക്ഷേ ഞാൻ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല മറ്റ് ആൺകുട്ടികളുമായി എന്റെ മുന്നിൽ വെച്ച് കോഫി കഴിക്കുന്നു" ഇമോഷണൽ മച്വരിറ്റിയുടെ യുടെ അടയാളമായി നിങ്ങൾ ഇതിനെ കാണുമോ നിങ്ങൾ അതിനെ ഒരു വ്യക്തിയുടെ യുക്തിരഹിതമായ ബന്ധം എന്ന് വിളിക്കുമോ എന്നിട്ട് ഞാൻ ഉടനെ അവനോടു ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് ഒരു പ്രശ്നമെന്ന് നിങ്ങൾ കരുതുന്നത് അതെ സർ കാരണം അവൾ ഒഴിവാക്കുന്ന രീതി എന്റെ ഉള്ളിൽ വൈകാരിക വേദന സൃഷ്ടിക്കുന്നു എനിക്ക് ഇത് കൂടുതലായി എടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഉടൻ ചോദിച്ചു എവിടെയാണ് പ്രശ്നം നിങ്ങൾക്ക് അവളെക്കുറിച്ച് ചില വികാരങ്ങൾ ഉള്ളതായി നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇല്ല സർ കഴിഞ്ഞ നാല് വർഷ മായി ഞാൻ ഒരു അവസരം തേടുകയാണ് ഞാൻ ഉടൻ തന്നെ ഒരു നിഗമനത്തിലെത്തി ഇത് ഒരു വൺ സൈഡഡ് അഫയർ ആണ് എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവളെക്കുറിച്ച് നിങ്ങൾക്ക് ചില വികാരങ്ങൾ ഉണ്ടെന്ന് അവളോട് പ്രകടിപ്പിക്കാത്തത് ഇല്ല സർ ഇത് പരീക്ഷാ സമയമാണ് ഇത് അവളെ ശല്യപ്പെടുത്തിയേക്കാം ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് അവൻ അവളുടെ ക്ഷേമത്തെക്കുറിച്ചും വളരെ പോസിറ്റീവായതിനാൽ അവൾക്ക് എന്തെങ്കിലും ദോഷം ചിന്തിക്കാൻ അവനു കഴിയില്ല അതിനാൽ അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള ഭയം ക്രമേണ തന്നിൽത്തന്നെ വളരുന്നുവെങ്കിൽ ഇത് ഒരു മാനസിക ലക്ഷണവുമാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇവിടെയെത്തിയത് നിങ്ങളിൽ നിന്നും സഹായത്തിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ദയവായി ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കൂ ഞാൻ ഉടനെ പറഞ്ഞു എനിക്ക് ഇതിൽ മുൻ പരിചയമൊന്നുമില്ല കാരണം ഞാൻ ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല അത് ഒരു കാര്യമാണ് രണ്ടാമതായി ചില പൊതു ഇടപെടലുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കൂ അതിനാൽ ആദ്യത്തെ പൊതു ഇടപെടൽ അവളെ ഒരു നല്ല ചങ്ങാതിയാക്കുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പിരിമുറുക്കം ഒഴിവാക്കുക അത് വിട്ടു കളയുക നിങ്ങളുടെ പിരിമുറുക്കം ഒഴിവാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും വളരെയധികം ഒറ്റപ്പെട്ടു നടക്കരുത് നിങ്ങൾ വളരെയധികം ഒറ്റപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലേശം കൂടുതൽ ആയിരിക്കും അവൻ പറഞ്ഞു സർ അത് സാധ്യമല്ല കാരണം എനിക്ക് അത് മനസിലാക്കാൻ സാധിക്കുന്നില്ല അവൾക്ക് എന്താണ് സംഭവിച്ചത് അവൾ ഇത്രയധികം എന്നെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ അവൾ ചിന്തിക്കുന്നില്ലായിരിക്കാം കൃത്യമായി അതു തന്നെ അവളുമായുള്ള ചർച്ചയിൽ പുറത്തുവന്നു അപ്പോൾ ഞാൻ അവനോടു നിർദ്ദേശിച്ചു നിങ്ങൾ വളരെയധികം വിഷമത്തിൽ ആണെങ്കിൽ അവളുമായി നല്ല സുഹൃദ്ബന്ധം ഉണ്ടാക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് അവളുമായി നല്ല ബന്ധമുണ്ടെന്ന് അവൾ മനസിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ പോയി സംസാരിക്കൂ അവളുമായി പോയി വീണ്ടും ഒരു കപ്പ് ചായ കഴിക്കാൻ ശ്രമിക്കൂ അവളുടെ കൂട്ടുകാരുടെ മുന്നിലും വെച്ച് സാധ്യമല്ല സർ ഇത് എനിക്ക് ശരിയാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സാഹചര്യം കൂടി എനിക്ക് ശുപാർശ ചെയ്യാൻ കഴിയും നിങ്ങൾ പോയി മറ്റൊരു പെൺകുട്ടിയുടെ കൂടി ചായ കുടിക്കുക അവളുടെ മുൻപിൽ വെച്ച് അത് ഒരുതരം തമാശയായിരുന്നു പക്ഷേ അവൻ പറഞ്ഞു സർ യഥാർത്ഥത്തിൽ ഇതാണ് എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നത് എനിക്ക് ഈ പെൺകുട്ടിയുമായി ആഴമേറിയ ബന്ധമുണ്ട് എനിക്ക് അങ്ങനെ ഒരു കാപ്പി കുടിക്കാൻ പോലും കഴിയില്ല പിന്നീട് ഞാൻ നിർദ്ദേശിച്ചു ശരി നിങ്ങളുടെ ബന്ധത്തിന്റെ വിജയത്തിന് കുറുക്കുവഴി മാർഗങ്ങളൊന്നുമില്ല നിങ്ങൾ ഒരു ഇടവേള എടുക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക വിശ്രമിക്കുക ഇതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇടവേള ലഭിക്കും നിങ്ങൾ തിരികെ വരുമ്പോൾ ഒരുപക്ഷേ ഈ ബന്ധം എങ്ങനെ തുടരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതിനുശേഷം ആ വിദ്യാർത്ഥി പിന്നെ ഒരിക്കലും തിരികെ വന്നില്ല ഇത് അവൻ എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നും പൊതുവെ ആളുകൾ ഒരു കാരണവും യുക്തിയും ഇല്ലാതെ പ്രശ്നങ്ങൾ വ്യക്തിപരമായി മനസ്സിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും ഇത് എങ്ങിനെ ഒരു കാരണവുമില്ലാതെ അവരെ അലോസരപ്പെടുത്തുന്നുവെന്നും കൃത്യമായി കാണിക്കുന്നു ഇങ്ങനെ ഒക്കെ എന്തെങ്കിലും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്ന് ആളുകൾ പലപ്പോഴും പറയുന്നു നിങ്ങൾക്ക് സ്നേഹവും യുദ്ധവും അറിയാം ഇതെല്ലാം ഒരു കാരണവുമില്ലാതെ സംഭവിക്കുന്നു ആളുകൾ അത് മനപൂർവ്വമായി ചെയ്യുന്നതാണ് പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ലെന്ന് അവർ പറയുന്നു ഇത് നമ്മുടെ ശക്തികളെയും ബലഹീനതകളെയും കുറിച്ചുള്ള നമ്മുടെ താഴ്ന്ന അവബോധത്തിന്റെ ഒരു ഉദാഹരണമാണ് ആളുകൾ എന്നെക്കുറിച്ച് എങ്ങനെ അഭിപ്രായപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പില്ല അതിനർത്ഥം നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ കഴിവില്ല എന്നാണ് നിങ്ങൾക്കു നിങ്ങളെ കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള അവബോധം വളരെ താഴ്ന്ന നിലയിലാണ് അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വയം വളർച്ച കൈവരിക്കുന്നതിന് ഒരാൾ മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സ്വയം വളർച്ചയ്ക്കും വികാസത്തിനും ഫീഡ്ബാക്ക് എല്ലായ്പ്പോഴും നല്ലതാണെന്നു നമ്മൾ പലപ്പോഴും പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക മാതാപിതാക്കളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക അധ്യാപകരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക പലരും പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു അവർ വ്യത്യസ്തമായി നിരീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പ്രൊഫൈലിലേക്ക് വിവരങ്ങൾ ചേർക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഈ ലോകത്ത് ഞാനാണ് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചതെന്നു ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ അല്ല ഞാൻ മാത്രമല്ല ആളുകൾ എന്നെക്കുറിച്ച് എങ്ങനെ അഭിപ്രായപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പില്ല ആളുകൾ അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ ആളുകൾ എന്നെക്കുറിച്ച് എങ്ങനെ അഭിപ്രായപ്പെടുന്നുവെന്ന് എനിക്കറിയില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി എന്താണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ആളുകൾക്കും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾപ്രതീക്ഷിക്കുന്നു ഈ ലോകത്ത് ഇത് സാധ്യമാണോ ഒരു വ്യക്തി ഇത് പോലെ ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമാണ് നിങ്ങൾക്ക് സ്വയം ഉറപ്പില്ല അതിനാൽ നിങ്ങളുടെ നേരെ ഒരു ചോദ്യചിഹ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും കൂടുതൽ അനിശ്ചിതത്വം കൂടുതൽ ആശയക്കുഴപ്പം ആശയക്കുഴപ്പം കുഴപ്പങ്ങൾ വളരെ കുറഞ്ഞ ആത്മവിശ്വാസം അത് ജീവിതത്തിൽ കൂടുതൽ പിശകുകൾക്ക് കാരണമാകും നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവുള്ളപ്പോൾ നിങ്ങൾ സ്വയം വില കുറച്ചു കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ സെൽഫ് ഇമേജ് നിങ്ങൾ കുറയ്ക്കുകയാണ് അത് നിങ്ങളുടെ ഇമേജിനെ നേരിട്ട് ബാധിക്കുന്നു അതിനാൽ ആളുകൾ എന്നെക്കുറിച്ച് എങ്ങനെ അഭിപ്രായപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിൽ ഇത് താഴ്ന്ന തലത്തിലുള്ള ഇമോഷണൽ ഇന്റെലിജൻസിന്റെ അടയാളമാണ് സാമൂഹിക സാഹചര്യങ്ങളിൽ ഞാൻ എന്റെ വികാരങ്ങൾ ചിലപ്പോൾ വിചിത്രമായി പ്രകടിപ്പിക്കുന്നു നിങ്ങൾ അവിടെ കാണുന്ന ആളുകൾ നിങ്ങൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രവേശിച്ചുവെന്ന് കരുതുക ഉടൻ നിങ്ങൾ പല സംസ്കാരത്തിൽ നിന്നും വന്ന വ്യത്യസ്തമായ സംസ്കാരത്തിൽ നിന്നും വന്നിട്ടുള്ളവരെ കണ്ടെത്തുന്നു ജാപ്പനീസ് ചൈനീസ് വിയറ്റ്നാമീസ് യൂറോപ്യൻസ് അമേരിക്കൻസ് പലതരം ഭക്ഷണങ്ങളുമുണ്ട് നിങ്ങളുടെ ജീവിതകാലത്ത് അത്തരമൊരു സാഹചര്യം നിങ്ങൾ നേരിട്ടിട്ടില്ല നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ ആളുകൾ വളരെ വിചിത്രമായ ഇംഗ്ലീഷ് സംസാരിക്കുന്നു നിങ്ങൾക്ക് അവർ പറയുന്നത് ഒട്ടും പിടി കിട്ടുന്നുമില്ല ഉച്ചാരണം വ്യത്യസ്തമാണ് നിങ്ങൾ ശെരിക്കും കുഴപ്പത്തിലാണ് ഇങ്ങനെയാണ് നിങ്ങൾ വളരെ കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ പെടുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ആ സാഹചര്യം നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ സ്വയം പ്രശ്നത്തിൽ ചാടി വളരെ ദാരുണമായ അനുഭവങ്ങളുമായി മടങ്ങിവരാനോ കഴിയും തങ്ങളെക്കുറിച്ച് സ്വയം ഉറപ്പില്ലാത്ത ആളുകൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല കർക്കശർ വൈജ്ഞാനികമായി വളരെ കർക്കശരായിട്ടുള്ളവർ അവർ കഷ്ടത അനുഭവിക്കാൻ സാധ്യതയുണ്ട് അവർ താഴ്ന്ന ഇമോഷണൽ ഇന്റലിജൻസ് കാണിക്കുന്നവരാണ് നിങ്ങൾക്ക് ഒരു മൾട്ടികൾച്ചറൽ ഡൈവേഴ്സ് പാർട്ടികൾ നടക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹിക സാഹചര്യങ്ങൾ മാനേജുചെയ്യാൻ കഴിയുമോ നിങ്ങൾക്കറിയില്ല ഭക്ഷണം കഴിക്കുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച അനുഭവം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷേ ചൈനീസ് ഭക്ഷണങ്ങൾ ഉണ്ടെന്ന് കരുതുക നിങ്ങൾ ഫോർക്കുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും സഹായം സ്വീകരിക്കേണ്ടതുണ്ട് മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഇത്തരം സാഹചര്യങ്ങൾ ഒരാൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും ഇത് സാധ്യമാണോ കാത്തിരിപ്പും നിരീക്ഷണവുമാണ് ഏറ്റവും നല്ല മാർഗം നിരീക്ഷണവും അനുകരണവും വഴിയുള്ള പഠനത്തെക്കുറിച്ച് മന ശാസ്ത്രജ്ഞർപറയുന്നത് അതുകൊണ്ടാണ് ഇമിറ്റേഷണൽ ലേണിംഗ് ഇങ്ങനെയാണ് അവർക്ക് സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കാനും നിയന്ത്രിക്കാനും കഴിയുന്നത് സമ്മർദ്ദം വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഒരാൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണിത് ഇമോഷണലി ഇന്റലിജന്റ് ഇമോഷണലി ഇന്റലിജന്റ് ആളുകൾ കോട്ടിനനുസരിച്ച് തുണി മുറിക്കുന്നത് കാണുന്നു എന്താണ് ഇതിനർത്ഥം നിങ്ങളുടെ പരിധി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെ വിശകലനം ചെയ്യണം എങ്ങനെ മനസിലാക്കാം എങ്ങനെ ക്രമീകരിക്കാം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം സമ്മർദ്ദം സൃഷ്ടിക്കുന്നത് സംഘടനയല്ല വ്യക്തികളാണ് നിങ്ങൾക്ക് സുഖമില്ലാത്തപ്പോൾ ഇല്ല എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം ബോസ് എല്ലായ്പ്പോഴും ശരിയാണെന്ന് നിങ്ങൾ പറയരുത് ബോസ് എല്ലായ്പോഴും ശരിയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ സ്വയം പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് സഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സഹിക്കാൻ പ്രയാസമാണെന്നും എനിക്ക് ഇഷ്ടമല്ലെന്നും നിങ്ങൾ പറയുന്ന നിമിഷം നിങ്ങൾ കുഴപ്പത്തിലാണ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത മറ്റ് പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ നിങ്ങൾ അതിനൊപ്പം ജീവിക്കേണ്ടത് ഉണ്ട് കാരണം ജീവിതത്തിൽ പലതും സംഭവിച്ചത് നിങ്ങൾ കാരണമല്ല മറ്റുള്ളവർ മൂലമാണ് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് മറ്റുള്ളവർ നിമിത്തവുമാണ് നിങ്ങൾ കാരണം മാത്രമല്ല അതിനാൽ സ്വയവും മറ്റുള്ളവരും തമ്മിൽ എല്ലാ സംയോജനവും ഉണ്ടായിരിക്കണം കൂടുതൽ വിടവ് ഉണ്ടെങ്കിൽ കൂടുതൽ തെറ്റിദ്ധാരണയുണ്ട് അതിനാലാണ് ഇവയെ താഴ്ന്ന നിലയിലുള്ള ഇമോഷണൽ ഇന്റലിജൻസിന്റെ സവിശേഷതകൾ എന്ന് വിളിക്കുന്നത് ഇവിടെ കുറച്ച് കൂടി ഉണ്ട് അന്ധമായ അഭിലാഷം ഒറ്റരാത്രികൊണ്ട് ആളുകൾ നാഴികക്കല്ലുകൾ നേടാൻ ആഗ്രഹിക്കുന്നു അരേ ഭായ് റോം ഒരു ദിവസത്തിൽ നിർമിച്ചതല്ല നിങ്ങൾക്കറിയാമോ ഇത് വളരെ ജനപ്രിയമായ ഒരു വാക്യമാണ് റോം ഒരു ദിവസത്തിൽ നിർമിച്ചതല്ല നിങ്ങൾക്ക് എങ്ങനെ എല്ലാം നേടാൻ കഴിയും എന്ത് വില കൊടുത്തും വിജയിക്കാനുള്ള പ്രവണത എനിക്ക് ഒരു വിജയിയാകണം ഈ ബാച്ചിന്റെ ടോപ്പറാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ പതിവായി ക്ലാസിൽ പങ്കെടുക്കുന്നില്ല നിങ്ങൾക്ക് എങ്ങനെ ബാച്ചിന്റെ ടോപ്പർ ആകാം നിങ്ങൾ ഇതിനകം തന്നെ ആ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്ക് എന്ത് വില കൊടുത്തും വിജയിക്കാനുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ സാഹചര്യങ്ങളും സംവിധാനങ്ങളും കൌശലം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇറ്റാലിയൻ കളിക്കാരൻ ഫ്രഞ്ച് ടീമിനെതിരെ ചെയ്തത് പോലെ ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണെന്ന് അവർ പറഞ്ഞു നിങ്ങൾക്ക് അവന്റെ ശ്രദ്ധ മറ്റ് ദിശകളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ മനപൂർവ്വം നമുക്ക് അവനെ തടയാനോ കളത്തിൽ നിന്ന് പുറത്തു അയയ്ക്കാനോ കഴിയും പത്രത്തിലെ ഒരു റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വംശീയ പരാമർശങ്ങൾ അമ്മയുടെ ഉത്ഭവത്തിനെതിരേ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വെച്ച് അവർ മനപൂർവ്വം അവനെ പ്രകോപിപ്പിച്ചതാണെന്നു അത് സിദാനിൽ തീവ്രമായ വികാരത്തെ പ്രകോപിപ്പിച്ചു തൽഫലമായി അദ്ദേഹം മൈതാനത്ത് വളരെ അനാവശ്യമായ ഒരു സംഭവം സൃഷ്ടിക്കുകയും അത് അവനെ കളത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ജീവിതത്തിൽ അന്ധമായ അഭിലാഷമുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയാത്തത് അതിനാലാണ് നിങ്ങൾ ഇവരെ താഴ്ന്ന നിലവാരത്തിലുള്ള EI ഉള്ള വ്യക്തിയെന്ന് വിളിക്കുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത ലക്ഷ്യങ്ങൾ കൈവരിക്കാനാവാത്ത ലക്ഷ്യങ്ങളുടെ ക്രമീകരണം ന്യൂറോട്ടിക് മാനേജർ എന്നൊരു ആശയം ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ആളുകൾ പലപ്പോഴും ന്യൂറോസിസ് സൈക്കോസിസ് എന്നിവയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു ന്യൂറോട്ടിക് മാനേജർ എന്ന് വിളിക്കുന്ന ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ആശയം നമുക്കറിയാം ന്യൂറോട്ടിക് ഓർഗനൈസേഷണൽ ന്യൂറോസിസിന്റെ പശ്ചാത്തലത്തിൽ ഈ ന്യൂറോട്ടിക് മാനേജർ എന്താണെന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും നമ്മൾ ഇതിനെ ഓർഗനൈസേഷണൽ ന്യൂറോസിസ് എന്ന് വിളിക്കുന്നു നന്ദി